ഈ ഫോർവേഡ് കൺവെർട്ടർ ടോപ്പോളജിയിൽ ട്രാൻസിസ്റ്റർ സ്വിച്ചുകളിലൂടെ കാന്തിക വൈദ്യുതധാര ഒഴുകുകയും ഈ റെസിസ്റ്ററിൽ അവ ഇല്ലാതാവുകയും ചെയ്യും റെസിസ്റ്ററിൽ വിഘടിപ്പിക്കുന്നതിനുപകരം ആ ഊർജ്ജം സ്രോതസ്സിലേക്ക് തിരികെ കൊണ്ടുവരാം അത് പിന്നീട് ഉപയോഗിക്കാനാകും അങ്ങനെ അവിടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും അതിനായി ഇവിടെ പ്രതിരോധം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ തീർച്ചയായും ഡയോഡ് ഉണ്ടാകും പക്ഷേ ടോപ്പോളജി അൽപ്പം മാറ്റും ടോപ്പോളജി ചെറുതായി പുനഃക്രമീകരിക്കാം കാന്തിക രീതിയിൽ കോർ റീസെറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കാം ഇതുപോലെയുള്ള ഒരു അധിക വൈൻഡിംഗ് കൂടി ഇവിടെ നൽകാം അവയെല്ലാം കപ്പിൾഡ് ആണ് ഒരു പ്രധാന മാറ്റം ഡോട്ട് പോളാരിറ്റിയിലാണ് ഡോട്ട് പോളാരിറ്റി ഈ ദിശയിലാണ് ഞാൻ ടേൺസ് റേഷ്യോ റിലേഷൻഷിപ്പ് 1 ആയി സൂചിപ്പിക്കാൻ പോകുന്നു പ്രാഥമികം മുതൽ ദ്വിതീയം വരെയുള്ളത് 1 n എന്നാണ് അടിസ്ഥാനപരമായി അത് അർത്ഥമാക്കുന്നത് ഈ വൈൻഡിംഗിന്റെ പ്രാഥമികം 1 1 ആണ് ഇപ്പോൾ ഈ വൈൻഡിംഗ് ഡിമാഗ്നെറ്റിസിങ് വൈൻഡിങ് എന്ന് വിളിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ അത് കോറിനെ ഡീമാഗ്നെറ്റൈസ് ചെയ്യുകയോ കോർ പുനഃസജ്ജമാക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് അതിനാൽ ഈ വിൻഡിങ്ങിനെ ഡി മാഗ്നറ്റൈസിംഗ് വിൻഡിംഗ് എന്ന് വിളിക്കുന്നു ഇതിന് പ്രൈമറിയുടെ അതേ ടേൺ റേഷ്യോ ഉണ്ട് വാസ്തവത്തിൽ ഇത് വൂണ്ട് ബൈഫിലാർ ആണ് അതായത് പ്രാഥമികവും ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗ് സ്റ്റോൺസും ഒരുമിച്ച് എടുത്ത് വക്കുന്നു അങ്ങനെ ഇവ രണ്ടും തമ്മിലുള്ള ലീക്കേജ് ഇൻഡക്ടൻസ് കുറയുന്നു ഇപ്പോൾ നമുക്ക് ഡയോഡ് ഉണ്ട് നമുക്ക് ഇവിടെ ഡയോഡ് സ്ഥാപിച്ച് കണക്ഷനുകൾ ഉണ്ടാക്കാം അതിനാൽ കണക്ഷൻ ഉണ്ടാക്കിയ ശേഷം ഇത് വൈൻഡിംഗിന്റെ ഡീമാഗ്നെറ്റൈസിംഗ് ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് കാണാം ബാക്കിയുള്ള സർക്യൂട്ട് സാധാരണ ഫോർവേഡ് കൺവെർട്ടറിന് സമാനമാണ് കോർ റീസെറ്റ് ഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ അവിടെ ഡയോഡ് പ്രതിരോധം മറ്റൊരു വൈൻഡിംഗ് ഉപയോഗിച്ച് മാറ്റി തുടർന്ന് അത് വിതരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഡോട്ട് പോളാരിറ്റി എന്നത് പ്രൈമറി ഡോട്ട് പോളാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു വിപരീത ഡോട്ട് പോളാരിറ്റി ആണ് ഇത് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഇവിടെ അവസാനം പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഇവിടെ അവസാനം നെഗറ്റീവ് ആണ് ഇനി ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം ഈ പ്രത്യേക തരം ടോപ്പോളജിയെ ഇപ്പോൾ ലോസ്ലെസ് ഫ്ലക്സ് റീസെറ്റ് ഫോർവേഡ് കൺവെർട്ടർ എന്ന് വിളിക്കുന്നു അതിനാൽ നഷ്ടരഹിതമായ ഫ്ലക്സ് റീസെറ്റ് ഉള്ള ഒരു ഫോർവേഡ് കൺവെർട്ടർ ആണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഈ പ്രത്യേക കൺവെർട്ടർ ഫോർവേഡ് ദിശ ഓപ്പറേഷൻ ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്തതിന് സമാനമാണ് സ്വിച്ച് ഓണായിരിക്കുമ്പോൾ നോൺ ഡോട്ട് എൻഡുമായി ബന്ധപ്പെട്ട് ഡോട്ട് Vin ആണെന്ന് കാണാം സെക്കണ്ടറി nVin ആയി മാറുന്നു Vp nVin ഇൻഡക്ടൻസുകൾ ചാർജ് ചെയ്യും ആ കാലയളവിൽ BJT ഓഫാണ് ഡോട്ട് എൻഡ് പോസിറ്റീവ് ആയി മാറുന്നു ദ്വിതീയ ഭാഗം ചിത്രത്തിന് പുറത്താണ് ഇൻഡക്റ്റൻസുകൾ ഫ്രീ വീലിംഗ് ആണ് കൂടാതെ നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആയതിനാൽ ഇവിടെയും ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗിൽ നോൺ ഡോട്ട് എൻഡ് പോസിറ്റീവ് ആകുകയും അത് ഈ പാതയിൽ കാന്തിക ഊർജ്ജം പമ്പ് ചെയ്യുകയും ചെയ്യും കാന്തിക ഊർജ്ജം ഉറവിടത്തിലേക്ക് പ്രവേശിക്കുമെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ഉറവിടത്തിന് മുങ്ങാനുള്ള ശേഷി ഉണ്ടായിരിക്കണം അത് ഈ ദിശയിലേക്ക് പോകും ഈ ഡയോഡ് ഓണാക്കുകയും ഫ്രീ വീലിംഗ് പാത അനുവദിക്കുക്കുകയും ചെയ്താൽ ഇതിൻറെ വോൾട്ടേജ് അതിനനുസരിച്ച് ഉയരും ഈ രീതിയിൽ കോർ പുനഃസജ്ജമാക്കുകയും യഥാർത്ഥ നിലയിലേക്ക് തിരികെ വരികയും തുടർന്ന് അടുത്ത സൈക്കിൾ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും കോർ പുനഃസജ്ജമാക്കുന്ന സമയത്ത് ഡീമാഗ്നെറ്റൈസിംഗ് കറന്റ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഡയോഡ് ഓണാണെന്നും ഈ അറ്റം ഭൂമിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതും ഇതും Vin മായി ബന്ധിപ്പിച്ചിരിക്കുന്നതും കാണാം അതിനാൽ ഈ വൈൻഡിംഗിൽ ഉടനീളമുള്ള വോൾട്ടേജ് Vin ആണ് ഇതിനർത്ഥം വോൾട്ടേജുകൾ Vin ഉടനീളം പ്രയോഗിക്കുകയും കോർ റീസെറ്റ് സ്ഥിരമായ നിരക്കിൽ സംഭവിക്കുകയും ചെയ്യുന്നു ഈ പ്രത്യേക വൈൻഡിംഗിന്റെ Vin L അല്ലെങ്കിൽ Vin Nd ഇവിടെ Nd എന്നത് ഈ ഡീമാഗ്നെറ്റൈസിംഗ് വിൻഡിംഗിലെ തിരിവുകളുടെ എണ്ണം ആണ് അതിനാൽ നമുക്ക് Vin Nd എന്നത് ഫ്ലക്സ് 0 ആയി കുറയുന്ന നിരക്ക് ആണ് ട്രാൻസിസ്റ്റർ ഓണാക്കുമ്പോൾ Vin Np എന്നത് ഫ്ലക്സ് വർദ്ധിക്കുന്ന നിരക്കും ട്രാൻസിസ്റ്റർ ഓഫ് ആകുമ്പോൾ Vin Nd അത് കുറയുന്ന നിരക്കും ആണ് Nd ഉം Np ഉം ഒരേ എണ്ണം ആണ് ഒന്ന് ഒന്നിലേക്ക് അത് വർദ്ധിക്കുന്ന നിരക്കും കുറയുന്ന നിരക്കും തുല്യമാണ് ഇങ്ങനത്തെ കൺവെർട്ടറിൽ 50 ശതമാനം ഡ്യൂട്ടി സൈക്കിൾ ലഭിക്കും കാരണം 50 ശതമാനത്തിൽ ഫ്ലക്സ് ഒരു പ്രത്യേക തലത്തിൽ എത്തുമായിരുന്നു ബാക്കി 50 ശതമാനം സമയം നിങ്ങൾ അനുവദിക്കണം അല്ലെങ്കിൽ അത് 0 ലേക്ക് തിരികെ വരണം 50 ശതമാനത്തിൽ താഴെയാണ് കാരണം ഓഫ് സമയം ഓൺ സമയത്തേക്കാൾ കൂടുതലാണ് അത് തീർച്ചയായും 0 ലേക്ക് തിരികെ വരും ഇത് ഈ കൺവെർട്ടറിന് ഒരു പരിമിതിയായിരിക്കും ഇതിന് പരമാവധി ഡ്യൂട്ടി സൈക്കിൾ 50 ശതമാനമാണ് ഇപ്പോൾ ഡീമാഗ്നെറ്റൈസിംഗ് തരംഗരൂപം ഒഴികെ എല്ലാ തരംഗരൂപങ്ങളും മുമ്പത്തേതിന് സമാനമാണ് മുമ്പത്തെ സന്ദർഭത്തിൽ എക്സ്പോണൻഷ്യൽ 0 ലേക്ക് ക്ഷയിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് രേഖീയമായി 0 ആയി കുറയും കാരണം ഈ വൈൻഡിംഗിലുടനീളം വോൾട്ടേജ് സ്ഥിരമാണ് സർക്യൂട്ട് സിമുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ തരംഗരൂപം നോക്കാം ഒരുപക്ഷേ നിങ്ങൾക്ക് സിമുലേഷൻ ചെയ്യാനും സർക്യൂട്ടിന്റെ മറ്റ് ഭാഗങ്ങളുടെ തരംഗരൂപങ്ങൾ കണ്ടെത്താനും ഫോർവേഡ് കൺവെർട്ടറിന്റെ ലോസി ഫ്ലക്സ് റീസെറ്റ് തരത്തിന് സമാനമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കഴിയും ഇപ്പോൾ ചർച്ച ചെയ്ത ലോസ്സ്ലെസ്സ് റീസെറ്റ് ഫോർവേഡ് കൺവെർട്ടർ ഞാൻ നിങ്ങൾക്ക് ഹ്രസ്വമായി കാണിച്ചുതരാം അതിന്റെ സിമുലേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ലോസി ഫോർവേഡ് കൺവെർട്ടർ സർക്യൂട്ടിൽ നിന്ന് പകർത്തിയ മറ്റൊരു ഫോൾഡർ കോൾ ഫോർവേഡ് രണ്ട് ഞാൻ സൃഷ്ടിച്ചു കൂടാതെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗ് ഉൾപ്പെടുത്തുന്നതിനായി ഞാൻ സ്കീമാറ്റിക് പരിഷ്ക്കരിച്ചു ഞാൻ ഈ പോയിന്റ് ഒന്ന് വിപുലീകരിക്കാം ഫോർവേഡ് കൺവെർട്ടറിന്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി ഇവിടെയും സമാനമാണെന്ന് നിങ്ങൾക്ക് കാണാം അത് ഗേറ്റ് ഡ്രൈവ് ഭാഗത്തിന് സമാനമാണ് കോർ റീസെറ്റിനായി ഡയോഡ് റെസിസ്റ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഭാഗം നീക്കം ചെയ്യുകയും ഒരു വിൻഡിംഗ് കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു ഇവിടെയുള്ള ലൈബ്രറിയിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത പുതിയ ഘടകം ഇതാണ് ഞാൻ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തത് ഫോർവേഡ് കൺവെർട്ടറിനുള്ള ട്രാൻസ്ഫോർമറാണ് അതിൽ മൂന്ന് വൈൻഡിംഗുകളാണുള്ളത് ഒപ്പം ഡോട്ട് പോളാരിറ്റികളും നിരീക്ഷിക്കുക പ്രൈമറിക്കും സെക്കണ്ടറിക്കും ഒരേ ഡോട്ട് പോളാരിറ്റി ഉണ്ട് ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗ് ഡോട്ട് പോളാരിറ്റിയുടെ വിപരീത അർത്ഥമാണ് അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗിലേക്ക് ഒരു ഡയോഡ് ബന്ധിപ്പിച്ചിരിക്കുന്നു മുമ്പത്തെപ്പോലെ അവസാന സിമുലേഷൻ കണ്ടത് പോലെ 0 വോൾട്ടേജ് ഉറവിടങ്ങളെ നിലവിലെ സെൻസറുകളായ Viq Vis എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഡയോഡിനൊപ്പം ഞാൻ Vid ഇട്ടിട്ടുണ്ട് അമ്പടയാളം നീങ്ങുന്ന ദിശയിൽ കൂടി ആണ് കറന്റ് പോകുന്നത് കറന്റ് പ്ലസ് ചിഹ്നത്തിലേക്ക് പ്രവേശിക്കുന്ന തരത്തിൽ ആണ് ഇവിടെയുള്ള ഈ പ്ലസ് ചിഹ്നം ഞാൻ ഇട്ടത് ഇനി ഇവിടെയുള്ള വൈദ്യുതധാരകൾ നോക്കാം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഡീമാഗ്നെറ്റൈസിംഗ് വിൻഡിംഗും കാണാം ബാക്കിയുള്ള സർക്യൂട്ട് അതേപടി തുടരും നമുക്ക് ടെർമിനലിലേക്ക് മടങ്ങി നെറ്റ് ലിസ്റ്റ് ചെയ്യാം ഇപ്പോൾ നെറ്റ് ലിസ്റ്റ് സൃഷ്ടിച്ചു ngSpice forward അത് സ്പൈസിൽ ലോഡുചെയ്ത് സിമുലേഷനിൽ റൺ ചെയ്യുന്നു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഞാൻ പ്രാരംഭ അവസ്ഥ നൽകിയിട്ടുണ്ട് അതുവഴി സിമുലേഷൻ വളരെ വേഗത്തിലാകുകയും നിങ്ങൾക്ക് ഫലം വേഗത്തിൽ കിട്ടുകയും ചെയ്യും അടുത്തതായി ഞാൻ പശ്ചാത്തല വർണ്ണത്തിന് തുല്യമായ വെള്ള സെറ്റ് ബാക്ക്ഗ്രൌണ്ട് കളർ നൽകും ഇപ്പോൾ മുൻഭാഗം കറുപ്പ് ആക്കി കറന്റ് പ്ലോട്ട് ചെയ്യുക നിങ്ങളുടെ സ്വിച്ചിന്റെ ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗ് കറന്റും സെക്കൻഡറിയിലൂടെയുള്ള കറന്റും ആണ് പ്ലോട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സ്വിച്ചിന്റെ കറന്റ് നീലയാണ് ഈ ഫ്ലാറ്റ് തത്തുല്യമായ ഫ്ലാറ്റ് ടോപ്പ് മൂല്യം Io യുടെ രണ്ട് മടങ്ങ് ആയിരിക്കും ഇത് Io ആയിരിക്കും ഇത് nIo ആണ് ഈ സാഹചര്യത്തിൽ 2 ഉം ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗ് ഇവിടെ കാണാം അൽപ്പം സൂം ഇൻ ചെയ്താൽ അത് രേഖീയമാണെന്ന് എന്ന് മനസിലാക്കാം ഒരു രേഖീയ ചരിവ് ഉണ്ടായിരിക്കും മുന്നോട്ടുള്ള ചരിവും രേഖീയമാണ് വീഴുന്ന ചരിവും രേഖീയമാണ് കാരണം വൈൻഡിംഗിൽ ഉടനീളമുള്ള വോൾട്ടേജ് സ്ഥിരമാണ് ഇത് ക്ഷയിക്കും കാരണം 50 ശതമാനത്തിൽ താഴെയുള്ള ഡ്യൂട്ടി സൈക്കിൾ ആയതിനാൽ 0 ആയി കുറയാൻ ഇതേ സമയമെടുക്കും Viq ൽ സ്വിച്ചിലുടനീളമുള്ള തരംഗരൂപത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം കൂടി കാണിക്കട്ടെ ലോസി ഫ്ലക്സ് റീസെറ്റ് ഫോർവേഡ് കൺവെർട്ടറിൽ ഞങ്ങൾ നിരീക്ഷിച്ച എക്സ്പോണൻഷ്യൽ ഭാഗം ഉണ്ടാകില്ല ഈ ഡയോഡിന്റെ ഈ സ്വിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഒരു Vin വരുന്നു ഇത് പോസിറ്റീവ് ആണ് ഇത് പോസിറ്റീവ് Vin ആയിരിക്കും ഇവിടെ ഒരു Vin ഉണ്ട് അവിടെ Vin ഉണ്ട് ഇവിടെ രണ്ട് തവണ Vin വരും ഇനി Vq പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ആ തരംഗരൂപം നോക്കാം ഇത് Vin മൂല്യമാണ് ഇപ്പോൾ ഈ ഘട്ടം വരെ കാന്തിക പ്രവാഹത്തിലെ രേഖീയ ക്ഷയത്തിൽ സ്ഥിരമായ ക്ഷയം ഉണ്ടെന്നും ആ മൂല്യം Vin രണ്ട് മടങ്ങും ആണ് Vin 15 വോൾട്ട് ആണ് ഇത് 30 പ്ലസ് ഡയോഡ് ഡ്രോപ്പ് ആണ് തുടർന്ന് ഈ ഘട്ടത്തിൽ ഡയോഡ് ഡ്രോപ്പ് ചാലകമാക്കുന്നു ഇത് എക്സ്പോണൻഷ്യൽ ആയി 0 ആയി കുറയുന്നു ഇതാണ് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഇത് ഫലത്തിൽ നേരിട്ട് 0 ആയി കുറയണം എന്നാൽ സ്വിച്ചുകൾ അനുയോജ്യമായ സ്വിച്ചുകളല്ലാത്തതിനാൽ പരിമിതമായ സമയത്തിനുള്ളിൽ അത് 0 ആയി കുറയും ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഭാഗം ഉപയോഗിക്കുന്നതിലൂടെ സർക്യൂട്ടിനെ അനുകരിക്കാനും കൂടുതൽ പഠിക്കാനും കഴിയും നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ലോസ്ലെസ് ഫോർവേഡ് കൺവെർട്ടറിന്റെ കോർ റീസെറ്റ് തരമാണിത് ഇതിൽ ഒരു പ്രശ്നമുണ്ട് അത് ലീക്കേജ് ഇൻഡക്റ്റൻസിന്റെ പ്രശ്നമാണ് ഇവിടെ ചില ലീക്കേജ് ഇൻഡക്ടൻസ് ഉണ്ടാകും ലീക്കേജ് ഇൻഡക്റ്റൻസ് എന്നതിനർത്ഥം രണ്ട് കോയിലുകൾക്കിടയിൽ ഘടിപ്പിച്ചിട്ടില്ലാത്ത ഫ്ളക്സിന്റെ ഭാഗം എന്ന് ആണ് ഇത് 1 മുതൽ 1 വരെയാണ് പ്രാഥമികവും ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗും ദൃഢമായി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വിച്ച് ഓണായിരിക്കുമ്പോൾ Q ഓണായിരിക്കുമ്പോൾ സ്വിച്ചിലൂടെ ഇതുപോലെ കറന്റ് ഫ്ലോ ഉണ്ടാകും ഞാൻ ഇതിനെ പ്രൈമറി Ip എന്ന് വിളിക്കും കൂടാതെ Ip സെക്കണ്ടറിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഘടകവും കാന്തികമാക്കുന്ന ഭാഗവും ഉൾക്കൊള്ളുന്നു ഇപ്പോൾ സ്വിച്ച് ഓഫ് ആകുന്ന നിമിഷം പ്രതിഫലിക്കുന്ന ഭാഗം ഓഫ് ആകുന്നു കാന്തികമാക്കുന്ന ഭാഗം 0 ആയും മാറുന്നു ഇപ്പോൾ ഈ ലീക്കേജ് ഇൻഡക്ടൻസിലുടനീളം ഇത് ഡീമാഗ്നെറ്റൈസിംഗ് വൈൻഡിംഗുമായി ബന്ധിപ്പിച്ചിട്ടില്ല കറന്റ് പെട്ടെന്ന് കട്ട് ആകുന്നത് കാണും അവിടെ didt കൂടുതൽ ആയിരിക്കും എന്നാൽ കാന്തിക വൈദ്യുതധാരയുടെ കപ്പിൾഡ് ഭാഗം ഈ ഡീമാഗ്നറ്റൈസിംഗ് വിൻഡിംഗിലൂടെ വിതരണത്തിലേക്കും പിന്നീട് പിന്നിലേക്കും ഒഴുകും അത് ഇതിലൂടെ ഫ്രീ വീൽ ചെയ്യുകയും പിന്നീട് ക്ഷയിക്കുകയും ചെയ്യും എന്നാൽ ഘടിപ്പിക്കാത്ത ഭാഗത്ത് ഒരു ലീക്കേജ് ഇൻഡക്ടൻസ് ഉണ്ടാകും അത് കൂടുകയും Ldidt കുറയുകയും ചെയ്യും ഇപ്പോൾ ഈ ഡ്രോപ്പിന് പോളാരിറ്റിയുടെ വിപരീതഫലമുണ്ടാകും ഇത് പ്ലസ് ആയിരിക്കും ഇത് മൈനസ് ആയിരിക്കും കാരണം കറന്റ് പോസിറ്റീവിൽ നിന്ന് 0 ആയി മാറിയിരിക്കുന്നു ഇത് ഒരു വലിയ നെഗറ്റീവ് ചരിവാണ് കാരണം ഇത് കുറച്ച് സമയത്തിനുള്ളിൽ 0 ആയി കുറയുന്നു ആ ഡ്രോപ്പ് പ്ലസ് Vin എന്നത് Q ആകും ട്രാൻസിസ്റ്റർ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കു കാണാം അത് സാധാരണയായി ഇതുപോലെ പോകണം എന്നാൽ ഈ ലീക്കേജ് ഇൻഡക്ടൻസ് കാരണം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയം വലിയൊരു സ്പൈക്ക് ഉണ്ടാകുമെന്നു പ്രതീക്ഷിക്കാം ആ ചോർച്ചയിൽ സംഭരിച്ചിരിക്കുന്ന ലീക്കേജ് ഇൻഡക്ടൻസ് എനർജിയുടെ അളവ് അനുസരിച്ച് അത് ഇതുപോലെ ദൃശ്യമാകും അതിനാൽ ഇത് ട്രാൻസിസ്റ്റർ Q നെ ബ്ലോ ചെയ്യിക്കും അത് അഭികാമ്യമല്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് പരിപാലിക്കാനും നഷ്ടരഹിതമായി തുടരാനും ഒരു ട്രാൻസിസ്റ്റർ കൂടി ഉപയോഗിക്കുന്നു ആ ടോപ്പോളജി എങ്ങനെ നിർമ്മിക്കാമെന്നും ഈ ലീക്കേജ് ഇൻഡക്റ്റൻസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നും ഞാൻ ഉടൻ കാണിക്കാം ടോപ്പോളജി ഇതുപോലെ പരിഗണിക്കുക Q1 ഉം Q2 ഉം ഇതുപോലുള്ള പ്രൈമറിയുമായി സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു ഇതൊരു ഫോർവേഡ് കൺവെർട്ടറാണ് ഡോട്ട് പോളാരിറ്റികൾ നോട്ട് ഡോട്ട് പോളാരിറ്റികൾ കൂടാതെ ദ്വിതീയ വശം സാധാരണ ബക്ക് കൺവെർട്ടർ സർക്യൂട്ടും ആണ് നിങ്ങൾ ഇത് പ്രവർത്തിക്കുമ്പോഴെല്ലാം Q1 ഉം Q2 ഉം ഒരുമിച്ച് ഓണാക്കും Q1 ഉം Q2 ഉം ഒരുമിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രൈമറിയിലൂടെ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാകുന്നു പ്രൈമറിയിലെ ഡോട്ട് എൻഡ് Vin മായി ബന്ധിപ്പിച്ചിരിക്കുന്നു നോൺ ഡോട്ട് എൻഡ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു Vin പ്രൈമറിയിലും nVin സെക്കണ്ടറിയിലും ദൃശ്യമാകും അങ്ങനെ സാധാരണ ഫോർവേഡ് കൺവെർട്ടർ പ്രവർത്തനം നടക്കുന്നു ഇപ്പോൾ നമുക്ക് ലീക്കേജ് ഇൻഡക്ടൻസ് ഉണ്ടെന്നും കോർ റീസെറ്റും ഉൾപ്പെടുത്തണമെന്നും പറയാം അതിനാൽ അവർ ഇതിൽ കൂടുതൽ ഉപകരണങ്ങൾ ഇൻപുട്ട് ചെയ്യും Q1 ഉം Q2 ഉം ഓണാക്കുമ്പോൾ ഈ ദിശയിൽ ഒരു കറന്റ് ഫ്ലോ ഉണ്ട് അതാണ് ഈ പച്ച അമ്പടയാളം കാണിക്കുന്നത് ഇപ്പോൾ Q1 Q2 എന്നിവ രണ്ടും ഒരുമിച്ച് ഓഫാക്കി ഇപ്പോൾ കറന്റ് ഫ്ലോകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ Q2 ഓഫാണ് ഇവിടെ നിന്ന് ഒരു ബ്രാഞ്ച് എടുത്ത് ഈ ഡയോഡിലേക്കും ഇവിടെയുള്ള മറ്റൊരു ഡയോഡിലേക്കും വിതരണം ചെയ്യുന്നു ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്ന കറന്റ് കുറക്കാൻ കഴിവുള്ള ഒരു ബാറ്ററി ഉണ്ട് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് അത് പ്രധാനമാണ് ഈ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ Q1 ഉം Q2 ഉം ഓണാണ് ഈ പോയിന്റർ കാണിക്കുന്നത് പോലെ ഈ ദിശയിൽ ഒരു കറന്റ് ഫ്ലോ ഉണ്ട് ഇപ്പോൾ Q1 ഉം Q2 ഉം പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇൻഡക്ടറിലും ലീക്കേജ് ഇൻഡക്റ്റൻസിലും കറന്റ് തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്നു തുടർന്ന് ഈ ഡയോഡ് പാത്ത് സപ്ലൈയിംഗ് ചാർജുകളിലേക്കും ഈ ഡയോഡിലൂടെ ഗ്രൌണ്ടിലേക്കും ബാക്ക് അപ്പ് ചെയ്ത് അതേ ദിശയിലൂടെ ഇൻഡക്ടറിലേക്കും പ്രവേശിക്കുന്നു ഇൻഡക്ടർ കറന്റ് ഒരേ ദിശയിൽ തുടർച്ചയായി ഒഴുകുന്നു ചോർച്ച ഉണ്ടെങ്കിൽ പോലും അത് സ്പൈക്കിന് കാരണമാകില്ല കാരണം നിലവിലെ ചാലക പാതയെ അത് തകർക്കുന്നില്ല അതിനാൽ ലീക്കേജ് ഇൻഡക്റ്റൻസിൽ ഉയർന്ന വോൾട്ടേജ് വികസിപ്പിച്ചിട്ടില്ല ഇതുവഴി രണ്ട് ട്രാൻസിസ്റ്ററുകളിലുമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടാകും സ്വിച്ചുകൾ ഓഫായിരിക്കുമ്പോൾ ഈ പോയിന്റ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കും ഇവയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മറ്റ് പോയിന്റുകൾ Vin കാണുകയും ഈ പോയിന്റുകൾ Vin ലേക്ക് കണക്റ്റ് ചെയ്യുകയും ചെയ്യും അതിനാൽ Q2 മൊത്തത്തിലുള്ള Vin ഡ്രോപ്പ് കാണുകയും ചെയ്യും അതിനാൽ രണ്ടിനും Vin നിലകൊള്ളിക്കാൻ ഉള്ള വോൾട്ടജ് ഉണ്ടായിരിക്കണം ഇതൊരു ഡയോഡ് ട്രാൻസിസ്റ്റർ ഫോർവേഡ് കൺവെർട്ടർ സർക്യൂട്ടാണ് ഇത് നഷ്ടരഹിതമാണ് കൂടാതെ ഇതിന് ലീക്കേജ് ഇൻഡക്ടൻസ് പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് പ്രായോഗികമായി പരീക്ഷിക്കാൻ കഴിയുന്ന കൺവെർട്ടറാണിത്